എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഐഐടി കാൺപൂരിൽ നിന്നുള്ള എൻപിടിഇഎൽ മൂക്കിന്റെ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം

ടി കാൺപൂരിലെ ഹ്യുമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് വിഭാഗത്തിൽ നിന്നുള്ള രവി ചന്ദ്രയാണ് കഴിഞ്ഞ നാല് ആഴ്ചകളായി ഞാൻ നിങ്ങൾക്ക് ഈ കോഴ്സ് നൽകുന്നു ഈ ആഴ്ചയിൽ നമ്മൾ ആശയവിനിമയത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിൽ ടെലിഫോണുമായി ബന്ധപ്പെട്ട കഴിവുകളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി പ്രത്യേകിച്ചും ഈ പ്രഭാഷണത്തിൽ ചില നൂതന ടെലിഫോൺ കഴിവുകൾക്കായി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഹ്രസ്വചിത്രം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു മുമ്പത്തേതിൽ നമ്മൾ ചെയ്തതിന്റെ ആവർത്തനം മുൻ പ്രഭാഷണത്തിൽ ടെലിഫോൺ ആശയവിനിമയത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്തു അതിനാൽ ടെലിഫോൺ ഉപയോഗിക്കുമ്പോൾ ഞാൻ സാധാരണയായി ആശയവിനിമയ വശത്തെ സ്വയം നോക്കുകയായിരുന്നു ആശയവിനിമയത്തിൽ ഉപയോഗിക്കുന്ന ഒരുതരം വൈരുദ്ധ്യാത്മക ഉപകരണമായി ടെലിഫോണിനെ കാണാൻ ഞാൻ പ്രത്യേകിച്ചും ശ്രമിക്കുകയായിരുന്നു എന്നാൽ നിങ്ങൾ ടെലിഫോൺ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഏതുതരം വ്യക്തിയാണെന്ന് അത് പറയുന്നു എന്ന വസ്തുതയും ഞാൻ നിങ്ങൾക്ക് എടുത്തുകാണിക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിനാൽ നിങ്ങൾ വിളിക്കുന്ന കോളുകളും നിങ്ങൾ അവരെ വിളിക്കുന്ന രീതിയും നിങ്ങൾ ആരാണെന്നും നിങ്ങൾ ഒഴിവാക്കുന്ന കോളുകളും അവ ഒഴിവാക്കുന്ന രീതിയും നിങ്ങൾ ആരാണെന്നും നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയും അവരുമായി സംസാരിക്കുന്ന രീതിയെയും നിർണ്ണയിക്കുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുകയും നിർണ്ണയിക്കുകയും വിശദീകരിക്കുകയും കണക്കാക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഈ ഉപകരണത്തിന് വളരെയധികം ശ്രദ്ധ നൽകണം ഫോൺ കോളുകൾ ഇന്ന് മനുഷ്യ ആശയവിനിമയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വശമായി മാറിയിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇത് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയും കൂടാതെ ഇത് മുഖാമുഖം ആശയവിനിമയം നടത്തുന്ന വാക്കാലുള്ള ആശയവിനിമയത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന വസ്തുതയും ഞാൻ എടുത്തുപറഞ്ഞു മുഖാമുഖം ആശയവിനിമയം നടത്തുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തിയെ നിങ്ങൾ കാണുന്നു അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയവിനിമയം മോഡുലേറ്റ് ചെയ്യാൻ കഴിയും എന്നാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് മറ്റേ വ്യക്തിയെ കാണാൻ കഴിയില്ല അതിനാൽ അത് അൽപ്പം സങ്കീർണ്ണമാക്കുന്നു ഇത് ലളിതമാക്കുന്നതിന് ഒരു പേനയും കടലാസും സൂക്ഷിക്കുക പ്രധാനപ്പെട്ട പോയിന്റ് നഷ്ടപ്പെടുത്തരുത് പ്രത്യേകിച്ച് അക്കങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾ വിളിക്കേണ്ട ഒരു നമ്പർ ആരെങ്കിലും നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് അല്ലെങ്കിൽ നിങ്ങൾ അത് മറക്കും പുഞ്ചിരിക്കുകയും മറ്റ് സൂചനകൾ ഉപയോഗിക്കുകയും ചെയ്യുക അത് നിങ്ങൾ വളരെ ഊഷ്മളമാണെന്നും മറ്റേയാൾക്ക് അത് യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ കഴിയുമെന്നും സൂചിപ്പിക്കുന്നു മറ്റേയാൾ അത് നീട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ക്ഷമയോടെയിരിക്കുക തിടുക്കപ്പെടരുത് തിടുക്കത്തിൽ അത് പൂർത്തിയാക്കാൻ ശ്രമിക്കരുത് ഒരു നല്ല ശ്രോതാവായിരിക്കുക ഒരു സജീവ ശ്രോതാവായിരിക്കുക മറ്റൊരാളെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുക തടസ്സപ്പെടുത്തരുത് പ്രത്യേകിച്ച് ഫോണിലൂടെ ഒരിക്കലും നിങ്ങളുടെ കോപം ഇറ യ്ക്കരുത് കാരണം ഇത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും മറ്റേയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴോ എന്തെങ്കിലും ചവയ്ക്കുമ്പോഴോ കുപ്പിക്കുമ്പോഴോ ഫോൺ കോൾ വന്നാൽ നിങ്ങൾ ഒരു കോൾ ചെയ്യുമ്പോൾ അത് നിർത്തുക അല്ലെങ്കിൽ ചെയ്യരുത് നിങ്ങൾ വായിക്കുമ്പോൾ അത് വന്നാലും വായന നിർത്തുക കമ്പ്യൂട്ടർ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ അത് വരുന്നതിൽ നിങ്ങൾ തിരക്കിലാണെങ്കിലും ഫോൺ കോളിൽ ഭാഗിക ശ്രദ്ധ നൽകരുത് തൽക്കാലം ടൈപ്പിംഗ് നിർത്തുക തുടർന്ന് അതിൽ പൂർണ്ണ ശ്രദ്ധ നൽകുക അങ്ങനെ ആശയവിനിമയം ഫലപ്രദമാകും നിങ്ങൾ ആ വ്യക്തിയുമായി ആശയവിനിമയം നടത്തുമ്പോൾ മറ്റേയാൾക്ക് നിങ്ങളെ യഥാർത്ഥത്തിൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ മുന്നിൽ കാണാൻ കഴിയാത്തതിനാൽ കുറച്ച് വാക്കാലുള്ള പ്രോത്സാഹനം ഉപയോഗിക്കുക അതിനാൽ ഞാൻ കാണുന്നു എന്നോട് കൂടുതൽ പറയുക തുടരുക തുടങ്ങിയ വാക്കാലുള്ള പ്രോത്സാഹനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനാൽ ഈ സൂചനകൾ യഥാർത്ഥത്തിൽ നിങ്ങൾ അവിടെയുണ്ടെന്ന് ആ വ്യക്തിക്ക് തോന്നും ഇപ്പോൾ ടെലിഫോൺ ആശയവിനിമയത്തിന്റെ കൂടുതൽ രസകരമായ ചില സവിശേഷതകൾ നോക്കാം കഴിഞ്ഞ പ്രഭാഷണത്തിൽ ടെലിഫോൺ ഉപയോഗത്തെക്കുറിച്ച് അൽപ്പം തത്ത്വചിന്തയ്ക്ക് ശേഷം നിങ്ങൾക്ക് വികസിപ്പിക്കാൻ കഴിയുന്ന അടിസ്ഥാന കഴിവുകളെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്തു എന്നാൽ ഇതിൽ നിങ്ങൾ വികസിപ്പിക്കേണ്ട ചില നൂതന കഴിവുകൾ നോക്കാം അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഏത് ഫോൺ കോളും നിങ്ങൾ ശരിക്കും നിർമ്മിക്കുന്നു നിങ്ങൾ അത് കൂടുതൽ ചെയ്യുന്നില്ല നിങ്ങൾ ഒരു കോൾ ചെയ്യുമ്പോൾ വളരെ വിജയകരമായ സാഹചര്യത്തിൽ നിങ്ങൾ ഇടപാട് പൂർത്തിയാക്കുന്നു കമ്പനിയിൽ വിളിക്കുന്ന വ്യക്തി നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇടപാട് ലഭിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അതിനാൽ നിങ്ങൾ ഗണ്യമായ ടെലിഫോൺ കോളുകൾ വിളിക്കുന്ന കല പഠിക്കുന്നു തുടർന്ന് നിങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്കോ വേണ്ടി അതിൽ നിന്ന് ഏറ്റവും മികച്ചത് നേടുക പ്രൊഫഷണൽ കാലാവസ്ഥ ഇപ്പോൾ ടെലിഫോൺ ആശയവിനിമയത്തിന്റെ കൂടുതൽ രസകരമായ ചില സവിശേഷതകൾ ഞാൻ പറയുന്നതുപോലെ ഇത് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്നതും ഏറ്റവും സാധാരണയായി ദുരുപയോഗം ചെയ്യപ്പെടുന്നതുമായ ഒന്നാണ് ആശയവിനിമയ രീതി പലപ്പോഴും സ്വീകർത്താവിൻറെ പ്രതികരണം നിസ്സാരമായി കണക്കാക്കപ്പെടുന്നു കൂടുതലും കാരണം സംസാരിക്കുന്നവർക്ക് പരസ്പരം കാണാൻ കഴിയില്ല അതിനാൽ മറുവശത്ത് മറ്റേയാൾ എന്താണ് പ്രതികരിക്കുന്നതെന്ന് അവർ അനുമാനിക്കുന്നു ചിലപ്പോൾ അത് മറ്റൊരാൾ ചിന്തിക്കുന്നതോ പെരുമാറുന്നതോ ആയ രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കാം ഇപ്പോൾ ഇത് വെല്ലുവിളിയാണ് കാരണം ആളുകൾ അവരുടെ മനസ്സിൽ നിരവധി കാര്യങ്ങൾ അനുമാനിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായ ഒരു ഉദാഹരണം നൽകട്ടെ അപ്പോൾ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്നും നിങ്ങൾ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ടെലിഫോൺ ആശയവിനിമയം വളരെ ബോധപൂർവ്വവും കാര്യങ്ങളിൽ വളരെ സജീവവുമായിരിക്കണം ഈ ലളിതമായ ഉദാഹരണം എടുക്കുക ഒരു ഡോക്ടറും രോഗിയും അടുത്താണ് താമസിക്കുന്നത് സമീപപ്രദേശം ഡോക്ടർ വളരെ തിരക്കിലാണ് പക്ഷേ അപ്പോൾ രോഗി അവനുമായി സ്വതന്ത്രമായി സംസാരിക്കാൻ ആഗ്രഹിച്ചു ചിലപ്പോൾ പുറത്ത് അതിനാൽ അദ്ദേഹം ഒരു അപ്പോയിന്റ്മെന്റ് ആവശ്യപ്പെടുകയും ഒടുവിൽ ഡോക്ടറെ വിളിക്കുകയും ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നാളെ 7 മണിക്ക് കണ്ടുമുട്ടാം ഇപ്പോൾ രോഗി പെട്ടെന്ന് എവിടെയാണെന്ന് ചോദിച്ചു അതിനാൽ എന്റെ നടത്തത്തിനിടയിൽ ഡോക്ടർ പാർക്കിൽ പറഞ്ഞു ഇപ്പോൾ ഒരു വശത്ത് ഡോക്ടർ എല്ലാ വിവരങ്ങളും നൽകിയതായി തോന്നുന്നു രോഗിക്ക് എല്ലാ വിവരങ്ങളും ലഭിച്ചു അവർ കണ്ടുമുട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ യഥാർത്ഥത്തിൽ അവർക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല കാരണം ഇതാണ് രോഗി എല്ലായ്പ്പോഴും ഡോക്ടറെ പാർക്കിൽ നടക്കാൻ പോകുന്നത് കാണുന്നു 6 30 മുതൽ 730 വരെ രോഗിയും അതേ പാർക്കിലേക്ക് പോകുന്നു ഡോക്ടർ വളരെ തിരക്കിലാവുകയും പിന്നീട് അസാന്നിധ്യത്തിലാവുകയും ചെയ്തു ഈ വ്യക്തി ആണെന്ന് അദ്ദേഹവും ഓർത്തു വൈകുന്നേരം 7 മണിക്ക് അവൻ പാർക്കിൽ നടക്കാൻ പോകുമ്പോൾ കാണുന്നു വൈകുന്നേരം എന്നാൽ അപ്പോൾ ഡോക്ടർ അത് മനസിലാക്കാൻ മറന്നു അദ്ദേഹവും ഒരു പ്രഭാതം എടുക്കുന്നുവെന്ന് പറഞ്ഞു അവൻ ദിവസത്തിൽ രണ്ടുതവണ നടക്കുന്നു രാവിലെ 7 മണിയോടെ ഒന്ന് തീർച്ചയായും പാർക്കിലും വൈകുന്നേരം 7 മണിയോടെ അവൻ തീർച്ചയായും പാർക്കിലുണ്ട് ഇപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ രോഗി രാവിലെ തന്നെ കാണുമെന്ന് അദ്ദേഹം കരുതി അതായത് രാവിലെ 7 മണിയോടെ പാർക്കിൽ ഇപ്പോൾ വൈകുന്നേരം മാത്രം ഡോക്ടറെ കണ്ടതിനാൽ രോഗി അത് അനുമാനിച്ചു ഡോക്ടർ വൈകുന്നേരം സമയം നൽകുന്നു അവർ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എന്ന് പറയാത്തതിനാൽ രാവിലെയോ വൈകുന്നേരമോ ഇരുവർക്കും കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല വളരെ ഗൌരവമായ ഒരു ആശയവിനിമയം നടത്താൻ കഴിഞ്ഞില്ല അതിനാൽ ഇതിൽ നിന്നുള്ള പാ ഠം ഫലപ്രാപ്തമായ ആശയവിനിമയത്തിലും സജീവമായ ശ്രവണത്തിലും വ്യക്തത ആവശ്യമാണ് എന്നതാണ് രണ്ടുപേരും ചെറുതായി സഹകരിക്കുകയും അവരുടെ അനുമാനം കുറയ്ക്കുകയും ചെയ്താൽ ഡോക്ടർ അർത്ഥമാക്കുന്നത് ഞാൻ രാത്രി 7 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാവിലെ 7 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർക്കിൽ എവിടെയാണെന്ന് രോഗി ചോദിച്ചപ്പോൾ നടത്തത്തിനിടയിൽ രാവിലെയോ വൈകുന്നേരമോ എന്ന് ചോദിച്ചെങ്കിൽ അപ്പോൾ രാവിലെയോ വൈകുന്നേരമോ എത്ര മണിക്കാണ് എന്ന് ചോദിച്ചെങ്കിൽ അതിനാൽ ആശയവിനിമയത്തിലെ ഫലപ്രാപ്തിയ്ക്ക് ഇത് യഥാർത്ഥത്തിൽ സംഭാവന ചെയ്യാമായിരുന്നു ഞങ്ങൾക്ക് അവരെ രണ്ടുപേരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ആശയവിനിമയത്തിൽ ഏർപ്പെടുമ്പോൾ ആളുകൾ ഇരുവരും കളിക്കുമെന്ന് കരുതുന്ന കളിയാണിത് ഇപ്പോൾ ആശയവിനിമയത്തിലേക്ക് ആഴത്തിൽ പോകുമ്പോൾ നമ്മൾ ഇതിൽ കൂടുതൽ നോക്കുന്നു ടെലിഫോൺ ഉപയോഗിക്കുന്നതിലെ നൂതന കഴിവുകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ നൂതന കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള ചില നുറുങ്ങുകൾ കൂടി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സംസാരിക്കുമ്പോഴെല്ലാം വ്യക്തമായി ഉച്ചരിക്കേണ്ടതുണ്ട് നിങ്ങൾ വ്യക്തമായി ഉച്ചരിക്കണം ഞാൻ വ്യക്തമായി ഉച്ചരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ തദ്ദേശീയ അമേരിക്കക്കാരനെപ്പോലെ ഉച്ചരിക്കേണ്ടതില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന തദ്ദേശീയ ബ്രിട്ടീഷ് വ്യക്തിപ്പോലെ ഉച്ചരിക്കേണ്ടതില്ല എന്നാൽ നിങ്ങൾ ഇംഗ്ലീഷിലോ ഏതെങ്കിലും ഭാഷയിലോ സംസാരിക്കുകയാണെങ്കിൽ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ മാത്രം സംസാരിക്കുക ഇപ്പോൾ ഇതിന്റെ ഒരു ഉദാഹരണം എടുക്കുക ഒരു സ്ഥാപനത്തിൽ എംഎച്ച്ആർഡിയിൽ നിന്നുള്ള സമിതി യോഗം ചേർന്നു എംഎച്ച്ആർഡിയിൽ നിന്നുള്ള വ്യക്തി ആ സ്ഥാപനത്തിന്റെ വകുപ്പ് മേധാവിയുമായി സംസാരിക്കുകയായിരുന്നു അടുത്ത അധ്യയന വർഷത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എഴുന്നേറ്റു ഞങ്ങൾക്ക് കുറഞ്ഞത് അഞ്ച് ലാബ് സ്റ്റാഫുകളെങ്കിലും ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ആ വ്യക്തി വീണ്ടും ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അഞ്ച് ലാബ് സ്റ്റാഫുകൾ ആവശ്യമായി വരുന്നത് നിങ്ങൾക്ക് ഇതിനകം ഒരു ലാബ് മാത്രമേയുള്ളൂ ഇല്ല ഞങ്ങൾക്ക് അഞ്ച് ലാബ് സ്റ്റാഫുകളെ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു അതിനാൽ എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു ഒരു ലാബ് നിങ്ങൾക്ക് ഇതിനകം ഒരു ലാബ് സ്റ്റാഫ് ഉണ്ട് അതിനാൽ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് അഞ്ച് ലാബ് സ്റ്റാഫ് ലാബ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് അപ്പോൾ ആരോ എഴുന്നേറ്റ് പറഞ്ഞു സർ അദ്ദഹം അർത്ഥമാക്കുന്നത് ലാബ് പേഴ്സൺ അവിടെയുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ലാപ്ടോപ്പുകൾ ആവശ്യമാണ് എന്നാണ് ലാപ്ടോപ്പുകൾ കമ്പ്യൂട്ടർ എന്ന് അദ്ദേഹം പറഞ്ഞത് ലാബ് സ്റ്റാഫുകൾ എന്നായി കേട്ടു എന്നതാണ് അതിനാൽ വ്യക്തമായി ഉച്ചരിക്കാത്തതിനാൽ അത് ആശയക്കുഴപ്പത്തിന് കാരണമായി മറ്റൊരു രസകരമായ കേസ് ഉണ്ടായിരുന്നു ഒരു പ്രൊഫസർ ഒരു ശാസ്ത്രജ്ഞൻ ഒരു പരീക്ഷണത്തിൽ ചില തവളകളെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ചില വിദ്യാർത്ഥികൾക്ക് ഒരു പ്രദർശനം നൽകാൻ അദ്ദേഹം ആഗ്രഹിച്ചു അതിനാൽ അദ്ദേഹം തന്റെ സഹായിയെ വിളിച്ചു തുടർന്ന് അദ്ദേഹം ഒരു കോൾ ചെയ്തു തുടർന്ന് നാളെ എനിക്ക് പത്ത് തവളകളെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു മറ്റേയാൾ തിരക്കിലായിരുന്നു തുടർന്ന് അദ്ദേഹം എന്തോ കേട്ടു തുടർന്ന് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു അത് ശരിയാണ് സർ അത് ചെയ്യും പക്ഷേ നിങ്ങൾക്ക് എത്ര വലുപ്പമാണ് വേണ്ടത് നിങ്ങൾക്ക് ചെറിയ വലിപ്പം വേണോ അതോ വലിയ വലിപ്പം വേണോ അതോ ഇടത്തരം വലിപ്പം വേണോ തുടർന്ന് പ്രൊഫസറും ശാസ്ത്രജ്ഞനും ഇടത്തരം വലിപ്പതിൽ ചെയ്യുമെന്ന് കരുതി പിറ്റേന്ന് അദ്ദേഹം എല്ലാ വിദ്യാർത്ഥികളെയും മറ്റ് ഗവേഷകരെയും വിളിച്ചു തവളകളുമായി പരീക്ഷണം ആരംഭിക്കാൻ അവൻ അതിനായി കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ആ വ്യക്തി അസിസ്റ്റന്റ് യഥാർത്ഥത്തിൽ പത്ത് തവളകളെ കൊണ്ടുവന്നു തവളകൾ ചെറിയ കുട്ടികൾക്ക് ഇടത്തരം വലിപ്പത്തിൽ ധരിക്കാൻ കഴിയുന്ന ഗൌണുകൾ ഫ്രോഗ്സ് എന്ന് ശാസ്ത്രജ്ഞൻ ഉച്ചരിച്ചതു ഫ്രോക്സ് എന്നായി മറ്റേയാൾ കേട്ടു ഇപ്പോൾ വീണ്ടും ഇവിടെ അയയ്ക്കുന്നയാൾക്കോ സ്വീകരിക്കുന്നയാൾക്കോ യഥാർത്ഥത്തിൽ പറയാം തവളകളെ കാണുക എനിക്ക് വേണ്ടാത്ത മൃഗങ്ങൾ അല്ലാതെ അവൻ വലിപ്പം ചോദിക്കുമ്പോൾ ശാസ്ത്രജ്ഞൻ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നാൽ എനിക്ക് വലിയ തവളകളെ ആവശ്യമില്ലെന്ന് അദ്ദേഹം വീണ്ടും കരുതി അതിനാൽ എനിക്ക് മീഡിയം ഒന്നിന് പോകാം തുടർന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഇരുവരും വിശദീകരണവും വിശദീകരണവും തേടാൻ ശ്രമിക്കുകയും ഒരാൾ സജീവ ശ്രോതാവായിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആശയക്കുഴപ്പം എളുപ്പത്തിൽ പരിഹരിക്കാമായിരുന്നു വ്യക്തമായി ഉച്ചരിക്കുന്നതിനുപുറമെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം ഊഷ്മളമായ ബഹുമാനം പരത്തുന്നു ഒപ്പം സഹായവും അതിനാൽ അത് ചൂട് വികിരണം ചെയ്യണം അതിനാൽ അവർ കേൾക്കുമ്പോൾ അവർക്ക് വളരെ ഊഷ്മളത അനുഭവപ്പെടണം നിങ്ങൾ ആണെന്ന് അവർക്ക് അനുഭവപ്പെടണം വളരെ മാന്യമായി സംസാരിക്കുകയും നിങ്ങൾ സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഒരു കമ്പനിയെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ച് പിന്തുണ നൽകുന്നു ഹലോയിൽ ആരംഭിക്കരുത് അതിനാൽ സാധാരണയായി ഞങ്ങൾ ഒരു ഫോൺ കോൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ഹലോ പറയുന്നു തുടർന്ന് ഞങ്ങൾ എല്ലായ്പ്പോഴും ഹലോ ഹലോ ഹലോ എന്ന് പറയുന്നു പക്ഷേ അത് ഒരു കമ്പനിയാണെങ്കിൽ അതിനാൽ നിങ്ങൾ പ്രതിനിധീകരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ആരംഭിക്കുന്നത് വളരെ അനൌപചാരികവും മര്യാദയില്ലാത്തതുമാണ് നിങ്ങൾ അതിനെ പ്രതിനിധീകരിക്കുന്ന ബിസിനസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ റിസപ്ഷനിസ്റ്റാണ് അതിനാൽ നിങ്ങൾ കമ്പനിയുടെ പേരിൽ നിന്ന് ആരംഭിച്ച് അതിനുശേഷം ഉടൻ തന്നെ മാന്യമായ ആശംസകൾ ഉപയോഗിക്കുക സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം നിങ്ങളുടെ പേര് ചേർക്കുക അതിനാൽ ആരാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ പറയുകയും തുടർന്ന് സഹായിക്കാൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുക അതിനാൽ ഉദാഹരണത്തിന് നിങ്ങൾ സ്റ്റെർലിംഗ് കമ്പനിയെ പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആരംഭിക്കാം സർവീസസ് ഗുഡ് മോർണിംഗ് ഇത് റോണിറ്റയാണ് ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കാം അതിനാൽ നിങ്ങൾ കമ്പനിയുടെ പേരിൽ ആരംഭിക്കുന്ന സ്റ്റെർലിംഗ് സേവനങ്ങൾ നിങ്ങൾ ആശംസയോടെ ആരംഭിക്കുക എന്നിട്ട് ഇത് റോണിറ്റയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഞാൻ റോണിറ്റയാണ് പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളെ സഹായിക്കുക അതിനാൽ നിങ്ങൾ തുടക്കത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക നൽകാൻ ശ്രമിക്കുകയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു സംസാരത്തിൽത്തന്നെ അത് മറ്റേ വ്യക്തിയെ ചെറുതായി തുറന്നുപറയുന്നു നിരവധി കോളർമാരുമായി ഇടപെടാൻ നിങ്ങൾ ഒരു പ്രധാന സ്ഥാനത്താണെങ്കിൽ അതിനാൽ വീണ്ടും ഒന്നുകിൽ ഒരു എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ ഉയർന്ന തലത്തിൽ നിങ്ങൾ നിരവധി കോളുകളിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് തലത്തിലോ കോൾ സെന്ററിലോ നിങ്ങൾ ഇടപാട് നടത്തുകയാണെങ്കിൽ മറ്റൊരു താഴ്ന്ന തലത്തിൽ നിരവധി കോളുകളോടെ തുടർന്ന് നിങ്ങൾക്ക് ഒരേസമയം വിളിക്കുന്നവരെ തടഞ്ഞുവയ്ക്കേണ്ടിവന്നാൽ അതിനാൽ രണ്ട് മൂന്ന് പേരെ തടഞ്ഞുവയ്ക്കുന്നത് നിങ്ങൾ വളരെ മര്യാദയുള്ളവരായിരിക്കണം നിങ്ങൾ ചിലരെ പിന്തുടരണം അതിനാൽ ചില ലളിതമായ മാനദണ്ഡങ്ങൾ നിങ്ങൾക്ക് മാന്യമായി ചോദിക്കാൻ കഴിയുന്ന രീതിയിൽ അവ നിർത്തിവയ്ക്കുന്നതിന് മുമ്പ് ആദ്യം അനുമതി ചോദിക്കുക ഞാൻ നിങ്ങളെ ഒരു നിമിഷം തടഞ്ഞുവെക്കട്ടെ മാഡം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾ ദയവായി കാത്തിരിക്കുമോ നിമിഷം സർ അതിനാൽ സാധാരണയായി നിങ്ങൾ മാന്യമായി അഭ്യർത്ഥിക്കുമ്പോൾ ആരും ഇല്ല എന്ന് പറയാൻ പോകുന്നില്ല നിങ്ങൾ കണക്ഷൻ നൽകുമ്പോൾ നിങ്ങൾ മടങ്ങിയെത്തുമ്പോൾ കഴിയുന്നത്ര വേഗത്തിൽ കാത്തിരിക്കുകയോ ചെയ്യുകയോ ചെയ്യും നിങ്ങളെ തടഞ്ഞുവച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്ന് നിങ്ങൾക്ക് പറയാമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുമോ എന്ന് വളരെ മാന്യമായി ക്ഷമ ചോദിക്കുക നിങ്ങളെ കാത്തുനിർത്തിയതിൽ എനിക്ക് ഖേദമുണ്ടെന്ന് പറയുക എന്നിട്ട് നിങ്ങൾ ക്ഷമ ചോദിക്കുന്നില്ലെങ്കിൽ നന്ദി പറയുക നിങ്ങളുടെ ക്ഷമയ്ക്ക് നന്ദി പറഞ്ഞതിന് നിങ്ങൾക്ക് നന്ദി പറയാം സർ അതിനാൽ അത് മറ്റേ വ്യക്തിയെ ഊഷ്മളത അനുഭവിപ്പിക്കുന്നു തുടർന്ന് അവരെ ബഹുമാനിക്കാൻ അവർക്ക് തോന്നും അവസാനം മറ്റേയാൾ നിങ്ങളാണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അത് ചെയ്യുമ്പോൾ ആദ്യത്തേത് ഒരു പുഞ്ചിരിയോടെ പറയുന്നു അതിനാൽ നിങ്ങൾ പുഞ്ചിരിക്കുകയാണെന്ന് റിസീവറിന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷവാനാണ് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട കോളുകൾ ചെയ്യാൻ പോകുമ്പോൾ ഔപചാരിക കോളുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിക്കായി എന്തെങ്കിലും ഓർഡർ ചെയ്യേണ്ടിവന്നേക്കാം നിങ്ങളുടെ ജീവിതത്തെയും കരിയറിനെയും സ്വാധീനിക്കുന്ന കോളുകൾ വീണ്ടും ഒരു ടെലിഫോണിക് അഭിമുഖം നൽകുക അത്തരം അവസരങ്ങളിൽ പൊതുവേ ഇത് ഒരു പരിശീലനമായി സ്വയം സജ്ജമാക്കുക മാനസികമായി വൈകാരികമായി ശാരീരികമായി ഒരു അഭിമുഖ കോൾ ആണെന്ന് കരുതുക നിങ്ങളുടെ കൈയുടെ അരികിൽ സിവി തയ്യാറാക്കി വയ്ക്കുക തുടർന്ന് നിങ്ങൾ എങ്ങനെ സ്വയം അവതരിപ്പിക്കണമെന്ന് ഓർക്കുക നിങ്ങൾ എന്താണ് പറയേണ്ടത് തുടർന്ന് വൈകാരികമായി നിങ്ങളെത്തന്നെ സന്തോഷിപ്പിക്കുക അതിനാൽ ചില ചെറിയ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകാം പക്ഷേ നിങ്ങൾ സന്തോഷിക്കുകയും തുടർന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നു അതെ ഞാൻ ഇത് മാനസികമായും പിന്നീട് ശാരീരികമായും ശക്തിപ്പെടുത്താൻ പോകുന്നു അതിനാൽ സ്വയം സുഖപ്രദമായ സ്ഥാനത്ത് നിലനിർത്തുക അതിനാൽ എഴുന്നേൽക്കാനോ ചുറ്റിക്കറങ്ങാനോ പലപ്പോഴും മണിക്കൂർ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കോൾ പോയാൽ പോലും നിങ്ങൾക്ക് അനുഭവപ്പെടില്ല അതിനാൽ സുഖപ്രദമായ ഒരു കസേരയിൽ ഇരിക്കുക തുടർന്ന് എയർ കണ്ടീഷനിംഗ് ഉപയോഗിച്ച് മുറി തണുപ്പിക്കണമോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക അല്ലെങ്കിൽ ഫാൻ വളരെയധികം ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ ഫാൻ ഓഫാക്കുകയും എയർകണ്ടീഷണർ സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് നല്ലത് അതിനാൽ മാനസിക തയ്യാറെടുപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ സ്വയം ശാരീരികമായി സുഖമായിരിക്കുക കുറിപ്പുകൾ മനസ്സിൽ തയ്യാറാക്കുക അല്ലെങ്കിൽ അത് എഴുതി സൂക്ഷിക്കുക കാരണം ഇത് സമയം ലാഭിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറക്കുന്നു അതിനാൽ തുടക്കത്തിൽ നിസ്സാരമായ കാര്യങ്ങൾ സംസാരിക്കുകയും അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യ പ്രവണതയാണ് അത് അപ്പോഴേക്കും മറ്റേയാൾ വളരെ രസകരമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ വ്യതിചലിച്ചു അതിനാൽ ഒടുവിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പോയിന്റ് നഷ്ടപ്പെട്ടു അത് ഒരു വിദേശ കോൾ ആണെന്ന് കരുതുക അതിനാൽ വീണ്ടും നിങ്ങൾ കൂടുതൽ പണം നൽകുന്നു മറുവശത്ത് മറുവശത്തുള്ള മറ്റേ വ്യക്തി നിങ്ങളുടെ കോൾ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നില്ല അതിനാൽ അദ്ദേഹത്തിൻ്റെ സമയവും വിലപ്പെട്ടതാണ് അതിനാൽ ഈ കുറിപ്പുകൾ മികച്ച രീതിയിൽ അല്ലെങ്കിൽ കുറഞ്ഞത് മാനസികമായി എഴുതുക കാരണം ഇത് സമയവും പണവും നിങ്ങളുടെ ഊർജ്ജവും മറ്റൊരാളുടെ ഊർജ്ജവും ലാഭിക്കും നിങ്ങൾ ഫോൺ സൂക്ഷിക്കുന്നിടത്തെല്ലാം നിങ്ങളുടെ മേശ വൃത്തിയായി സൂക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മേശ ക്രമീകരിക്കുക പ്രത്യേകിച്ചും നിങ്ങൾ കോർഡ്ലെസ്സ് അല്ലെങ്കിൽ കോർഡ്ലെസ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഫോണിൽ സാധനങ്ങൾ ശേഖരിക്കുക നുണ പറയുകയാണ് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ഷർട്ട് അല്ലെങ്കിൽ ടി ഷർട്ട് എറിഞ്ഞു തുടർന്ന് ടവലും തുടർന്ന് ഫോണും നിങ്ങൾ തിടുക്കത്തിൽ വരുന്നു തുടർന്ന് മോതിര ശബ്ദം കേൾക്കുന്നു പക്ഷേ അപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല കോർഡ്ലെസ്സ് കിടക്കുന്നിടത്താണ് ഫോൺ കിടക്കുന്നത് അതിനാൽ നിങ്ങൾ അത് തിരയുന്നത് തുടരുക അതിനാൽ അങ്ങനെ ചെയ്യരുത് ഫോണിൽ ഒന്നും ശേഖരിക്കരുത് അത് വൃത്തിയായി സൂക്ഷിക്കുകയും നോട്ട് സൂക്ഷിക്കുകയും ചെയ്യുക ഫോണിന് സമീപം പാഡും പേനയും അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു വലംകൈയ്യൻ ആണെങ്കിൽ അതിനാൽ അത് വലതുവശത്ത് വയ്ക്കുക ഫോൺ ഇടതുവശത്ത് വയ്ക്കുക നിങ്ങളുടെ ഫോൺ അറിയുക നിങ്ങൾ വിളിക്കുമ്പോൾ ആരും വിളിക്കാത്തപ്പോൾ ഇന്ന് ഫോണുകൾ ധാരാളം സൌകര്യങ്ങളുമായി വരുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളെയും മറ്റുള്ളവരെയും വിളിക്കുക അതിനാൽ മ്യൂട്ട് പോലുള്ള ഹോൾഡ് തുടർന്ന് കോൺഫറൻസ് പോലുള്ള സ്പീക്കർ ഓപ്ഷൻ പോലുള്ള ധാരാളം ഓപ്ഷനുകൾ ഉപയോഗിക്കുക വിളിക്കുക എന്നിട്ട് വോയ്സ് മെയിൽ പോലും നിങ്ങൾക്ക് അത് എങ്ങനെ സജീവമാക്കാം ഏത് തരത്തിലുള്ള വോയ്സ് മെയിൽ ഇത് നിങ്ങളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയും അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ പരിശീലിക്കണം നിങ്ങൾ ഉപകരണങ്ങളിൽ പ്രാവീണ്യം നേടണം നിങ്ങൾ ചെയ്യുമ്പോഴല്ല ഒരു കോൾ ചെയ്യുന്നു പക്ഷേ കോളിന് മുമ്പുതന്നെ നിങ്ങൾ എല്ലാം ഫോണുകൾ വരുമെന്ന് അറിയാൻ ശ്രമിക്കുന്നു കാറ്റലോഗുകളും നല്ല ഫോണുകളും ഉള്ള കാറ്റലോഗുകൾ ഓൺലൈനിൽ ലഭ്യമാകും നിങ്ങൾക്ക് അത് ലഭിച്ചില്ലെങ്കിൽ കാറ്റലോഗ് ഓൺലൈനിൽ ഡൌൺലോഡ് ചെയ്യുക തുടർന്ന് അതിൽ ഭൂരിഭാഗവും പ്രാവീണ്യം നേടാൻ ശ്രമിക്കുക നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു നല്ല ഫോൺ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനാൽ സ്പീക്കർ ഉപയോഗിക്കുക അതിനാൽ നിങ്ങൾ അത് വ്യക്തമായി കേൾക്കുകയും തുടർന്ന് നിങ്ങൾക്ക് വിയർപ്പില്ലാതെ കുറിപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്യാം ശ്രമങ്ങൾ നടത്തുകയും സ്പീക്കർ ഉപയോഗിക്കുന്നതും ഒരു നല്ല രീതിയാണ് എന്നാൽ മറ്റുള്ളവർ ചുറ്റുമുണ്ടെങ്കിൽ തുടർന്ന് നിങ്ങൾ സ്വകാര്യത നിലനിർത്താൻ ആഗ്രഹിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് സ്പീക്കർ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാം നിങ്ങൾ വീണ്ടും വിളിക്കുമ്പോൾ നിങ്ങൾ നമ്പർ പരിശോധിക്കുന്ന ചില കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഡയൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു നമ്പർ ഡയൽ ചെയ്യുന്നത് വളരെ പ്രൊഫഷണലല്ലാത്തതിനാൽ ക്ഷമിക്കണം എന്ന് പറയുക തെറ്റായ നമ്പർ പ്രൊഫഷണലുകൾ ഒരിക്കലും തെറ്റായ കോളുകൾ വിളിക്കില്ല നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നമ്പർ ഡയൽ ചെയ്താൽ മതി നിങ്ങൾ ഡയൽ ചെയ്യുമ്പോൾ അത് ശരിയായി പരിശോധിക്കുകയും നിങ്ങൾ ശരിയായി രേഖപ്പെടുത്തുന്ന നമ്പറുകൾ പോലും പരിശോധിക്കുകയും ചെയ്യുക നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ സ്വയം പരിചയപ്പെടുത്തുക അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നത് വളരെ അപമര്യാദയാണ് യഥാർത്ഥത്തിൽ ഫോൺ എടുത്തയാൾ നിങ്ങൾ ആദ്യം സ്വയം പരിചയപ്പെടുത്തണം ഇത് ജോൺ അല്ലെങ്കിൽ ഇത് ഗുപ്തയാണ് അല്ലെങ്കിൽ പങ്കജ് ആണ് ഫോൺ ചെയ്യുന്നത് എന്നിട്ട് ഗുഡ് മോർണിംഗ് പോലുള്ള മാന്യമായ ആശംസകൾ നൽകുന്നു അതിനാൽ ഞാൻ അങ്ങനെ സംസാരിക്കുന്നുണ്ടോ അതോ അങ്ങനെ സംസാരിക്കാനുള്ള ശരിയായ സമയമാണോ തുടർന്ന് ആ വ്യക്തി നിങ്ങളുടെ ആശംസകൾ സ്വീകരിച്ചുകഴിഞ്ഞാൽ അത് ശരിയായ വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്താണെന്ന് വ്യക്തവും സംക്ഷിപ്തവുമായിരിക്കുക പ്രത്യേകിച്ച് പ്രൊഫഷണലുകളിൽ നിങ്ങൾക്ക് അത് എഴുതാൻ പോലും കഴിയും സംസാരിക്കുന്നതിന് മുമ്പ് അത് റിഹേഴ്സൽ ചെയ്യുകയും ശരിയായ സമയത്ത് ശരിയായ കാര്യം പറയുകയും ഉചിതമായി അവസാനിപ്പിക്കുകയും ചെയ്യുക അതിനാൽ ഈ ക്രമം കൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് അതിനാൽ നിങ്ങൾ പ്രാധാന്യമില്ലാത്ത എന്തെങ്കിലും ആരംഭിക്കുക തുടർന്ന് മറ്റൊന്നിലേക്ക് പോകുക പ്രത്യേകിച്ച് ചിലപ്പോൾ നിങ്ങൾ ഫോണിൽ പോലും അഭിമുഖങ്ങൾ നടത്തുന്നുണ്ടാകാം അതിനാൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന രീതി അനുസരിച്ച് ക്രമപ്പെടുത്തുകയും തുടർന്ന് ശേഖരിക്കുകയും ചെയ്യുന്നു വിവരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവസാനത്തിലേക്ക് നിലനിർത്തുന്നു അങ്ങനെ ആ വ്യക്തി ചൂടാവുകയും തുടർന്ന് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശ്രമിക്കുകയും തുടർന്ന് എപ്പോൾ നിങ്ങൾ ശരിയായ രീതിയിൽ അവസാനം എത്തുമ്പോൾ വീണ്ടും അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ചില ലളിതമായ മാനദണ്ഡങ്ങൾ പാലിക്കാം ആ വ്യക്തിയെ അഭിനന്ദിക്കുക അതിനാൽ നിങ്ങളോട് സംസാരിക്കുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് പറയാം തുടർന്ന് നൽകുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യുക നിങ്ങളുടെ വിളിക്കായി ഞാൻ കാത്തിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാവുന്ന പ്രതീക്ഷയുടെ അർത്ഥം നിങ്ങൾക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നും പറയാം നിങ്ങളെ പാർട്ടിയിൽ കാണാൻ അല്ലെങ്കിൽ മീറ്റിംഗ് മുതലായവയിൽ എവിടെയെങ്കിലും കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ ലളിതമായ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് വിട പറയാം തുടർന്ന് നിങ്ങൾക്ക് കാണാമെന്ന് പറയാം നിങ്ങൾക്ക് ഉടൻ അല്ലെങ്കിൽ ഒരു നല്ല ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവസാനിപ്പിക്കാം ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതുപോലുള്ള പ്രശ്നമുണ്ടാക്കുന്ന ചില പ്രഭാഷകരുണ്ട് നിങ്ങളുടെ ശബ്ദം പോലെ അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു തിരക്കുള്ള വ്യക്തിയാണെന്ന് അവർക്കറിയാം അപ്പോൾ അത് എന്ന് അവർക്കറിയാം നിങ്ങളോട് സംസാരിക്കുന്നത് അവർക്ക് പ്രയോജനകരമാണ് അതിനാൽ അവർ കോൾ തൂക്കിയിടുന്നു അതിനാൽ കോൾ അവസാനിപ്പിക്കാൻ റിസീവർ വിസമ്മതിക്കുന്നു ഇപ്പോൾ പറയാൻ ഭയപ്പെടുന്നതിനുപകരം നിങ്ങളുടെ പക്കലുള്ളതെന്തും നിങ്ങൾ മാന്യമായി പറയണം ഇല്ല നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അവരോട് പറയണം അതിനാൽ നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടെന്നും നിങ്ങൾ മീറ്റിംഗിലേക്ക് തിരക്കുകൂട്ടുകയാണെന്നും നിങ്ങൾ അവരോട് പറയുന്നു ഒരു വിദ്യാർത്ഥിയോ അധ്യാപകനോ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു ക്ലാസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രഭാഷണം ഉണ്ടെന്നോ പറയാം നിങ്ങൾ പ്രസംഗത്തിലോ ഏതെങ്കിലും അപ്പോയിന്റ്മെന്റിലോ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് പറയുക ഡോക്ടറുടെ കൂടെ അതിനാൽ നിങ്ങൾ പോയി അത് കണ്ടെത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സേവനത്തിനായി ഒരു അപ്പോയിന്റ്മെന്റ് പോലെ നിങ്ങളുടെ വാഹനം അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനും തുടർന്ന് നിങ്ങൾക്ക് മാന്യമായി കോൾ അവസാനിപ്പിക്കാനും കഴിയും മറ്റൊരാൾ അത് തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വതന്ത്രനായിരിക്കുമ്പോഴെല്ലാം വീണ്ടും സമയം നൽകുക മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് സന്ദേശം അയയ്ക്കാമെന്നും അല്ലെങ്കിൽ അവർക്ക് കഴിയുമെന്നും നിങ്ങൾക്ക് അവരോട് പറയാം നിങ്ങൾക്ക് ഇമെയിൽ പോലും അയയ്ക്കുക വരാനിരിക്കുന്ന പ്രഭാഷണങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ മതിയായ രീതിയിൽ പിന്തുടരാൻ കഴിയും എന്നതിനെക്കുറിച്ചും ഞങ്ങൾ സംസാരിക്കും ഇമെയിലുകൾ ഉപയോഗിക്കുന്നതിനുള്ള നിബന്ധനകൾ എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് അത് മറ്റൊരു ഓപ്ഷനായി ഉപയോഗിക്കാം നിങ്ങളെ മുറുകെ പിടിക്കുകയും പിന്നീട് ഒരു കോൾ പൂർത്തിയാക്കാൻ നിങ്ങളെ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളോട് അതിനാൽ നിങ്ങൾക്ക് അത് ഒരു ഓപ്ഷനായി നൽകാം ഇപ്പോൾ നിങ്ങൾ അവിടെ ഉള്ളതുപോലെ ഒരാളുടെ പേരിൽ നിങ്ങൾക്ക് ഒരു കോൾ ലഭിക്കുമ്പോൾ കോൾ വന്നിരിക്കുന്നു ഒരാൾക്ക് വേണ്ടി തുടർന്ന് ആ വ്യക്തി നിങ്ങളോട് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെടുകയും തുടർന്ന് നിങ്ങൾ ആ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും അത് മറ്റൊരാൾക്ക് കൈമാറുകയും വേണം അതിനാൽ ഇത് വീണ്ടും നിങ്ങൾ ഒരു റിസപ്ഷനിസ്റ്റ് ആയതിനാലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രധാന സ്ഥാനത്തായതിനാലോ ആകാം മാനേജർ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സഹപ്രവർത്തകനാണ് തുടർന്ന് നിങ്ങൾക്ക് കോൾ ലഭിക്കുകയും നിങ്ങൾ ഇത് പാസ് ചെയ്യുകയും വേണം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിനുപകരം കോളിന്റെ വിശദാംശങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് നിങ്ങൾ അത് ഓർമ്മിക്കുകയും അത് പാസ് ചെയ്യുകയും ചെയ്യും പ്രത്യേകിച്ച് ഓഫീസ് സാഹചര്യങ്ങളിൽ കോർപ്പറേറ്റുകളിൽ ആദ്യം വ്യക്തിയുടെ പേര് പോലുള്ള കോളിന്റെ വിശദാംശങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ സഹപ്രവർത്തകൻ ഒരാഴ്ച കഴിഞ്ഞ് മൂന്ന് ദിവസത്തിന് ശേഷം വന്നേക്കാം എന്നതിനാൽ നിങ്ങൾ അവിടെ ഇല്ലായിരിക്കാം എന്നതിനാൽ കോൾ ചെയ്ത തീയതി അതിനാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു കുറിപ്പുണ്ടാക്കുകയും കോളിന്റെ സമയവും കോളിന്റെ ഉദ്ദേശ്യവും എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ വിളിച്ചതെന്നും നിങ്ങളുടെ സഹപ്രവർത്തകനിൽ നിന്ന് ആ വ്യക്തിക്ക് എന്താണ് വേണ്ടതെന്നും അവന്റെ അല്ലെങ്കിൽ അവളുടെ മേശപ്പുറത്ത് വയ്ക്കുക അതിനാൽ എന്ത് നടപടിയെടുക്കണമെന്ന് നിങ്ങൾ പരാമർശിക്കുന്നു ഇത് വീണ്ടും ഒരു ബിസിനസ്സ് സാഹചര്യമാണെങ്കിൽ എന്തെങ്കിലും ഫോളോ അപ്പ് ചെയ്യാൻ ആരെങ്കിലും ആരെയെങ്കിലും വിളിക്കുന്നു ഓർഡർ അയയ്ക്കുക അല്ലെങ്കിൽ ഒരു ഓർഡർ എടുക്കുക തുടർന്ന് അത് എപ്പോൾ ചെയ്യണം എന്ന സമയപരിധി അതിനാൽ നിങ്ങൾക്ക് ആരെയെങ്കിലും വിളിച്ച് ഈ വിശദാംശങ്ങളെല്ലാം നൽകേണ്ടിവന്നാൽ നിങ്ങൾ ഒരു ഉത്തരം നൽകുന്ന മെഷീനിൽ ഒരു സന്ദേശം ഇടുകയാണെങ്കിൽ അത്തരം വിശദാംശങ്ങൾ നൽകുക പ്രൊഫഷണൽ സാഹചര്യങ്ങളിൽ ഒരു ഫോർമാറ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത് പക്ഷേ ചില ഉദ്യോഗസ്ഥർ വീട്ടിൽ പോലും ഇതുപോലുള്ള ഫോർമാറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഇത് ടെലിഫോൺ കുറിപ്പുകൾ പോലെയാണ് അതിനാൽ നിങ്ങൾ തീയതി സമയത്തിനായി സ്ഥലം വിടുന്നു ആ വ്യക്തിക്ക് അത് നോട്ട് ചെയ്യാനും തുടർന്ന് ആർക്കാണ് സന്ദേശം വന്നത് എന്ന സന്ദേശം അയയ്ക്കാനും എളുപ്പമാണ് അതിനാൽ നിങ്ങൾ വ്യക്തിയുടെ പേര് എഴുതുന്നു ആരാണ് ഇത് വിളിച്ചതെന്നും തുടർന്ന് എന്താണ് സന്ദേശം അതാണ് ഉദ്ദേശ്യം അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു മുറി ബുക്ക് ചെയ്യാനുള്ള ഓർഡർ മാത്രമായിരിക്കാം കൂടാതെ എന്ത് നടപടിയെടുക്കണം എന്നതും അവിടെ എഴുതാം കൂടാതെ കോൺടാക്റ്റ് നമ്പറോ കോൺടാക്റ്റ് വിലാസമോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട എന്തും നിങ്ങൾക്ക് അവിടെ രേഖപ്പെടുത്താം അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ആശയവിനിമയം ഒഴിവാക്കാൻ ഒരു ഫോർമാറ്റ് എന്ന നിലയിൽ അത് നിങ്ങളെ സഹായിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കാതിരിക്കുകയും മറ്റേയാൾ വിളിക്കാതിരിക്കുകയും ചെയ്യും വ്യക്തിയുടെ മറുവശം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അവൻ ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസുമായുള്ള ആശയവിനിമയ ബിസിനസ്സ് ഇടപാടിൽ ഏർപ്പെടുന്നത് നിർത്തുന്നു അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാം ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നതിനുമുമ്പ് നിങ്ങൾക്ക് ചില വെല്ലുവിളികൾ ഉണ്ടെന്ന് എടുത്തുകാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു പ്രൊഫഷണൽ രീതിയിൽ ഒരു നൂതന ടെലിഫോൺ ഉപയോക്താവായിത്തീരുമ്പോൾ പതുക്കെ ഒരു പ്രൊഫഷണലായി മാറുന്നു വരാനിരിക്കുന്ന പ്രഭാഷണത്തിൽ കൂടുതൽ വെല്ലുവിളികളും ആ വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ ഗുണങ്ങളും നമ്മൾചർച്ച ചെയ്യും നിങ്ങൾ അഭിമുഖീകരിക്കേണ്ട വെല്ലുവിളികളിലൊന്ന് അസുഖകരമായ വാർത്തകൾ നൽകുക എന്നതാണ് ഇപ്പോൾ അസുഖകരമായ വാർത്തകൾ നൽകുന്നത് എന്തും ആകാം സംഭവിച്ച ഒരു അപകടം പോലെ ഏത് ചരക്ക് വസ്തുക്കൾ വഹിച്ചാലും അതിനാൽ അവയെല്ലാം പാഴായി ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ട്രക്ക് ലോഡ് ഐസ്ക്രീം മറ്റൊരു സ്ഥലത്തേക്ക് അയയ്ക്കുന്നു അതിനാൽ ഉടൻ തന്നെ ഒരു അപകടം സംഭവിച്ചു അകത്തെ കൂളർ പ്രവർത്തിക്കുന്നത് നിർത്തി ഐസ്ക്രീം ഉരുകാൻ തുടങ്ങി ഇത് ഒരു പാർട്ടിക്ക് പോകേണ്ടതുണ്ട് ആളുകൾ ഐസ്ക്രീം വരാൻ കാത്തിരിക്കുകയാണ് അതിനാൽ ഇത്തരത്തിലുള്ള അസുഖകരമായ വാർത്തകളിൽ നിന്ന് അത് ആരുടെയെങ്കിലും മരണമാകാം ആരെങ്കിലും പ്രതീക്ഷിക്കുന്നു പക്ഷേ ആ വ്യക്തി മരിച്ചു അതിനാൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തമോ ഏതെങ്കിലും അപകടമോ കാലതാമസമോ ആകാം അതിനാൽ നിങ്ങൾ ഈ ദിവസം എന്തെങ്കിലും ഡെലിവറി ചെയ്യേണ്ടതുണ്ട് പക്ഷേ നിങ്ങളുടെ തൊഴിലാളികൾ പണിമുടക്കിയതിനാൽ നിങ്ങൾക്ക് അത് ഡെലിവറി ചെയ്യാൻ കഴിയില്ല അതിനാൽ നിങ്ങൾക്ക് രണ്ട് ദിവസം കൂടി വേണം അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു ഇപ്പോൾ സാധാരണയായി നിങ്ങൾക്ക് അസുഖകരമായ വാർത്തകൾ നൽകേണ്ടിവരുമ്പോൾ മുൾപടർപ്പിന് ചുറ്റും അടിക്കരുത് പ്രസക്തമല്ലാത്ത കാര്യങ്ങൾ പറയാൻ ശ്രമിക്കരുത് തുടർന്ന് പതുക്കെ വരിക കാരണം അത് മറ്റൊരാളെ അലോസരപ്പെടുത്തും തീർച്ചയായും വളരെ മര്യാദയുള്ള രീതിയിൽ നേരെ പോയിന്റിലേക്ക് പോകുക ഉദാഹരണത്തിന് സർ ഈ ഐസ്ക്രീം ട്രക്ക് ഈ സമയത്തിനുള്ളിൽ എത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ അത് ഒരു അപകടത്തിലാണെന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് ഖേദമുണ്ട് ഇപ്പോൾ കാരണം പറയുക അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു ഇത് ഞങ്ങളുടെ ഡ്രൈവറുടെ തെറ്റല്ലെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ എതിർവശത്ത് നിന്ന് മറ്റേ ട്രക്ക് ആൾ വന്നു തുടർന്ന് അയാൾ മദ്യപിച്ചിരുന്നു തുടർന്ന് അയാൾ ഞങ്ങളുടെ ട്രക്കിൽ ഇടിക്കുകയും ചെയ്തു കാരണം യഥാർത്ഥത്തിൽ മറ്റേ വ്യക്തിയെ അൽപ്പം തണുപ്പിക്കും ഇപ്പോൾ ബദൽ പരിഹാരം നൽകുക അതിനാൽ ഉദാഹരണത്തിന് സർ ഇത് ഉരുകാൻ തുടങ്ങിയതിനാൽ ഇത് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഒരു സഹോദര ആശങ്കയുണ്ട് ഒരേയൊരു പ്രശ്നം അത് ഞങ്ങളുടെ ബ്രാൻഡല്ല പക്ഷേ ബ്രാൻഡ് ഒരുപോലെ മികച്ചതാണ് അതിനാൽ നമുക്ക് അവർക്ക് ഒരു കോൾ നൽകുകയും തുടർന്ന് ഡെലിവറി ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യാം ഒരുപക്ഷേ അവർ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ അൽപ്പം കുറവായിരിക്കും വിതരണം ചെയ്യുക പക്ഷേ കുറഞ്ഞത് നിങ്ങൾക്ക് സാഹചര്യം കൈകാര്യം ചെയ്യാൻ കഴിയും അതിനാൽ അത് മറ്റേ വ്യക്തിയെ സുഖകരമാക്കുന്ന ബദൽ പരിഹാരമാണ് അതിന്റെ അവസാനം നിങ്ങൾക്ക് ക്ഷമ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആരംഭിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഞാൻ ആണെന്ന് പറയാം അങ്ങനെ ഒരു അപകടം സംഭവിച്ചുവെന്ന് ഭയന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു അതിനാൽ ഈ കാര്യങ്ങൾ മറ്റൊരാൾക്ക് സുഖകരമാകും ഇപ്പോൾ അതിന്റെ അവസാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുന്നു ഇത് വളരെ നിർണായകവും വളരെ വെല്ലുവിളി നിറഞ്ഞതുമായ സാഹചര്യമാണ് എന്നാൽ ഇത് അറിയിച്ചാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രതികരണവും പ്രതീക്ഷിക്കാം ആ വ്യക്തിക്ക് ദേഷ്യം വരാം ഏത് വിട്ടുവീഴ്ചയും സ്വീകരിക്കാൻ ആ വ്യക്തി തയ്യാറായിരിക്കില്ല നിങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ദയയുള്ള വാക്കുകളാൽ ആ വ്യക്തി മൃദുവാക്കാം ഒപ്പം നിങ്ങൾ നൽകുന്ന നല്ല നിർദ്ദേശങ്ങളും അതിന്റെ അവസാനം നിങ്ങൾ സംസാരിക്കണമെന്ന് ഓർക്കുക മറ്റുള്ളവരുടെ ബഹുമാനം നേടുന്ന രീതിയിൽ നിങ്ങൾ മറ്റൊരാളെ ബോധ്യപ്പെടുത്തണം ഉദാഹരണത്തിന് ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ വളരെ മോശം വാർത്തകൾ അറിയിക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമ ചോദിക്കുന്ന എന്തെങ്കിലും പറഞ്ഞതായി ആ വ്യക്തിക്ക് അറിയാം സാധാരണയായി അത് കൊണ്ടുവരുന്ന വ്യക്തിയോട് ആളുകൾക്ക് ദേഷ്യം വരും എന്നാൽ അതേ സമയം നിങ്ങൾ അത് പറയുന്ന രീതിയും തുടർന്ന് നിങ്ങൾ നൽകുന്ന ആശ്വാസവും നിങ്ങളോട് ബഹുമാനം നേടണം അത് വരും കാലങ്ങളിൽ അതേ വ്യക്തിയുമായി ആശയവിനിമയം നടത്താൻ നിങ്ങളെ സഹായിക്കും സോഫോക്കിൾസിൻറെ ഒരു ഉദ്ധരണിയോടെ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അത് ഞാൻ മുമ്പത്തേതിൽ അവസാനിപ്പിച്ച ചിന്തയോട് അടുത്താണ് മോശം വാർത്തകൾ കൊണ്ടുവരുന്ന സന്ദേശവാഹകനെ ആരും സ്നേഹിക്കുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു അതിനാൽ നിങ്ങൾ രാജാക്കന്മാരെ കാണുകയാണെങ്കിൽ ആരെങ്കിലും മോശം വാർത്ത കൊണ്ടുവരുന്നതായി അവർ കാണുകയാണെങ്കിൽ ആ വ്യക്തിയെ ശിരഛേദം ചെയ്യുക മോശം വാർത്ത കൊണ്ടുവരുന്ന ദൂതനെ ഉടൻ കൊല്ലുക അതിനാൽ ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന മോശം വാർത്ത നിങ്ങൾ കൊണ്ടുവരുമ്പോഴും അത് ശരിയാണ് എന്നാൽ ഞാൻ നിർദ്ദേശിച്ച എല്ലാ മര്യാദയുള്ള പെരുമാറ്റരീതികളും മാന്യതയും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രധാനമാണ് ഇതിൽ നിങ്ങൾക്ക് ബഹുമാനം നേടാൻ കഴിയും നിങ്ങൾ മോശം വാർത്ത നൽകിയിട്ടുണ്ടെങ്കിലും കോളിന്റെ അവസാനത്തിൽ അത് പ്രധാനമാണ് അതിനാൽ ആത്മാർത്ഥവും മാന്യവുമായ വളരെ നല്ല ഒരാളുമായി സംസാരിക്കുന്നതായി അവർക്ക് തോന്നുന്നു അതിനാൽ ഈ കുറിപ്പോടെ ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു ഇത് കണ്ടതിന് നന്ദി അടുത്തതിൽ നിങ്ങളുടെ ടെലിഫോൺ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അന്തിമ ചർച്ചയുമായി ഞാൻ വരും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു